'ഇൻട്രൊഡക്ഷൻ ടു മെക്കാനോബയോളജി എന്ന കോഴ്സിലെ അഞ്ചാമത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഏതാനും ലെക്ച്ചറുകളിലൂടെ നിങ്ങൾക്ക് ഈ മേഖലയെക്കുറിച്ച് വിശാലമായ ഒരു ആമുഖം ലഭ്യമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വിവിധ ഉദാഹരണങ്ങളിലൂടെ ജീവശാസ്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഫോഴ്സുകൾക്കുള്ള സാംഗത്യം എന്താണ് കോശങ്ങളിൽ സംഭവിക്കുന്ന സ്ഥാനചലനം അതുപോലെ വിഭജനം എന്നീ പ്രക്രിയകൾ ഉടലെടുക്കുമ്പോൾ അവയിൽ അനുഭവപ്പെടുന്ന ചലനാത്മകതയുടെ തോത് കോശങ്ങളും അവയുടെ പരിസ്ഥിതിയും തമ്മിൽ നിർബന്ധം ഉണ്ടായിരിക്കേണ്ട പരസ്പരവ്യവഹാരങ്ങൾ എന്നിവയെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ലഭ്യമായി എന്ന് കരുതുന്നു കഴിഞ്ഞ ലെക്ച്ചറിൽ ഞാൻ കോശങ്ങളെ ഒരു ടെന്റുമായി താരതമ്യപ്പെടുത്തിയിരുന്നു അനുബന്ധ കോശങ്ങൾക്ക് നിയതമായ ആകൃതിയും വ്യക്തമായ ആശയവിനിമയ പാടവവും മറ്റും പ്രധാനം ചെയ്യാൻ ആവശ്യമായ അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ചും നമ്മൾ ചർച്ച നടത്തിയിരുന്നു കഴിഞ്ഞ ലെക്ച്ചറിന്റെ അന്തിമ ഭാഗത്തിൽ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിനെ പറ്റി നമ്മൾ ചർച്ച ആരംഭിച്ചിതാണ് വ്യത്യസ്തമായ ഉദാഹരണങ്ങളിലൂടെ കോശവും അതിനോട് ബന്ധപ്പെട്ട മെട്രിക്സും തമ്മിൽ അരങ്ങേറുന്ന ചലനാത്മകമായ ക്രോസ്സ് ടോക്കുകളെ കുറിച്ചും നമ്മൾ വിശദപഠനം നടത്തിയിരുന്നു ഇവിടെ A B യെ ബാധിക്കുന്നു എന്നോ നേരെ തിരിച്ചോ അല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇവ രണ്ടും പരസ്പരം തങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ നിയതമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് മേല്പറഞ്ഞ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിനെ ഉത്പാദിപ്പിക്കുന്ന കോശങ്ങളുണ്ട് ഇവയിൽ ഏറ്റവും പ്രധാനം കണക്ടീവ് ടിഷ്യുകളിൽ കാണപ്പെടുന്ന ഫൈബ്രോബ്ലാസ്റ് കോശങ്ങൾ തന്നെയാണ് ഇവ ധാരാളം അളവിൽ കൊളാജെൻ സ്രവിക്കുന്നുണ്ട് ഇവയുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്മൂത്ത് മസിൽ കോശങ്ങളും അതുപോലെ തന്നെ എപ്പിത്തീലിയൽ കോശങ്ങളും നേരിയ തോതിൽ മെട്രിക്സ് സ്രവിക്കുന്നുണ്ട് മേല്പറഞ്ഞ കോശങ്ങൾ മെട്രിക്സ് ഉത്പാദിപ്പിക്കുന്നതിന് പകരമെന്നോണം ECM അവയെ പ്രവർത്തന ക്ഷമതയേറിയ സംയോജിത കോശങ്ങളായി രൂപപ്പെടുത്തുന്നതിൽ സുത്യർഹമായ പങ്ക് വഹിക്കുന്നുണ്ട് കോശങ്ങളെ നിശ്ചിത സ്ഥാനങ്ങളിൽ നിലയുറപ്പിക്കുന്നതിലും അവയെ സമ്പൂർണ്ണ സംയോജിത കോശങ്ങളായി സമന്വയിപ്പിക്കുന്നതിലും മേല്പറഞ്ഞ മെട്രിക്സുകൾക്ക് സുപ്രധാനമായ കടമ നിർവഹിക്കാനുണ്ട് കോശങ്ങളും മെട്രിക്സും തമ്മിലുള്ള പരസ്പരവ്യവഹാരവും അവയുടെ പ്രവർത്തന മികവും ഏകീകരിക്കുന്നതിൽ ECM മായി ബന്ധപ്പെട്ട എഡ്ഹെഷനുകൾ മധ്യസ്ഥം നില്ക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ആയതിനാൽ കോശങ്ങൾക്ക് ഇവ തിരിച്ചറിയുന്നതിനായുള്ള രാസ ഭൌതിക സൂചനകൾ ECM തന്നെ പ്രധാനം ചെയ്യുന്നുണ്ട് ഇതിലൂടെ ലഭ്യമാകുന്ന ഇൻപുട്ടിനെ ആധാരമാക്കിയാണ് ഇവ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് കഴിഞ്ഞ ലെക്ച്ചറിൽ നാം ഏറെ ചർച്ച ചെയ്ത ഒരു ECM എന്നത് തീർച്ചയായും ബേസ്മെൻറ് മെംബ്രേയ്ൻ തന്നെയാണ് മേല്പറഞ്ഞ ബേസ്മെന്റ് മെംബ്രേയ്ൻ എന്നത് 50 മുതൽ 200 നാനോമീറ്റർ മാത്രം ഘനമുള്ളതാണ് ഒട്ടുമിക്ക കോശങ്ങൾക്ക് ചുറ്റിലും ഈ പറഞ്ഞ ബേസ്മെൻറ് മെംബ്രേയ്ൻ നമുക്ക് കാണാവുന്നതാണ് അവയവത്തിനുള്ളിൽ സ്ഥിതിചെയ്യുന്ന വിവിധയിനം സംയോജിതകോശങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന ധർമ്മമാണ് അവയ്ക്കുള്ളത് ഇവ കോശങ്ങളുടെ അതിജീവനത്തിന് ഉതകുന്ന സന്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും അവയ്ക്ക് നിലയുറപ്പിക്കാൻ നിയതമായ മെക്കാനിക്കൽ പിന്തുണ നൽകുകയും ചെയ്യുന്നു മാത്രമല്ല ഇവർ കോശങ്ങൾക്ക് വിലങ്ങനെ വിന്യസിക്കാനുള്ള പ്രതലമായും പ്രവർത്തിക്കുന്നുണ്ട് സാധാരണ ശരീരശാസ്ത്രമുള്ള കോശങ്ങൾക്ക് മെംബ്രേയ്നിനെ മറികടക്കുകയെന്നത് വളരെ പ്രയാസമേറിയ ഒരു ദൌത്യമാണ് താഴെ പറയുന്ന മൂന്ന് സന്ദർഭങ്ങളിൽ മേല്പറഞ്ഞ മെംബ്രേയ്നിന് പിളർപ്പ് സംഭവിക്കുന്നുണ്ട് ഒന്ന് ശാരീരിക വികാസത്തിന്റെ ഭാഗമായി വിവിധതരം അവയങ്ങൾ വിപുലീകരിക്കപ്പെടുമ്പോൾ രണ്ട് രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി ഇമ്മ്യൂൺ കോശങ്ങൾക്ക് ശരീരത്തിന്റെ നാനാഭിത്തികളും മറികടന്ന് നിരീക്ഷണം നടത്തേണ്ട ആവശ്യം ഉണരുമ്പോൾ മൂന്നാമത്തെ സാഹചര്യമെന്നത് ക്യാൻസർ കോശങ്ങളുടെ അധിനിവേശം സംഭവിക്കുമ്പോഴാണ് മേല്പറഞ്ഞ സന്ദർഭം അല്പം ഗൌരവമേറിയ ഒരു അവസ്ഥയാണ് ഈ സാഹചര്യത്തിൽ കോശങ്ങൾ ബേസ്മെൻറ് മെംബ്രേയ്നിനെ ജീർണ്ണതയിലേക്ക് നയിക്കുന്നതോടുകൂടി മേല്പറഞ്ഞ അധിനിവേശത്തിന് തുടക്കം കുറിക്കുകയും പിന്നീടിത് ഇൻവേഷൻ മെറ്റാസ്റ്റാസിസ് കാസ്കേഡിന് കാരണമാകുകയും ചെയ്യുന്നു ബേസ്മെൻറ് മെംബ്രേയ്നിൽ അനേകം എക്സ്ട്രാ സെല്ലുലാർ പ്രോട്ടീനുകൾ നിരനിരയായി അടുക്കിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് മനുഷ്യശരീരത്തിൽ ഏറ്റവും സമൃദ്ധമായി കാണപ്പെടുന്ന പ്രോട്ടീനാണ് കൊളാജെൻ എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇവ കോശങ്ങൾക്ക് നിയതമായ ടെൻസൈൽ സ്ട്രെങ്ങ്ത് പ്രധാനം ചെയ്യുന്നുണ്ട് ഫൈബ്രോബ്ലാസ്റ് കോശങ്ങളും സ്മൂത്ത് മസിൽ കോശങ്ങളും എപ്പിത്തീലിയൽ കോശങ്ങളുമാണ് ഇവ ഉത്പാദിപ്പിക്കുന്നതിൽ മുൻപന്തിയിലുള്ളത് മനുഷ്യശരീരത്തിൽ മാത്രം വിവിധയിനം കൊളാജെനുകൾ നിലവിലുണ്ട് എന്നതാണ് വസ്തുത മാത്രമല്ല ഫൈബ്രിലാർ കൊളാജെനുകൾക്ക് മൂന്ന് ചരടുകൾ പരസ്പരം ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന ഒരു ട്രിപ്പിൾ ഹെലികൽ മാതൃകയിലുള്ള ഘടനയാണുള്ളത് മേല്പറഞ്ഞ ഘടനയിൽ കാണപ്പെടുന്ന ബാൻഡഡ് സ്ട്രക്ച്ചറുകളുടെ പിരിയോഡോസിറ്റി എന്നത് 67 നാനോമീറ്ററാണ് കൊളാജെനെക്കുറിച്ച് മാത്രം സംസാരിക്കുകയാണെങ്കിൽ അവയിലുള്ള വ്യക്തിഗത ഫൈബ്രിലുകൾക്ക് നിയതമായ ഒരു ഘടനാ വൈഭവമുണ്ടാകും എന്നാൽ അവ പരസ്പരം ഇഴചേർന്ന് ഒരു 3 D നെറ്റ് വർക്കിന് ജന്മം നൽകുമ്പോൾ അതിന്റെ സ്വഭാവ സവിശേഷതയെന്നത് വ്യക്തിഗത കൊളാജെൻ ഫൈബ്രിലുകളിൽ നിന്നും തീർത്തും വിഭിന്നമായിരിക്കും കൊളാജെൻ പോലെയുള്ള ECM ശൃംഖലകളുടെ മെക്കാനിക്കലായ സവിശേഷതകളെ കുറിച്ചുള്ള അവബോധം തീർത്തും പ്രസക്തമാണ് ഇതിനെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് ലഭ്യമാകുക കഴിഞ്ഞ ലെക്ച്ചറിൽ നാം പാകപ്പെടുത്താത്ത സ്പാഗെറ്റിയെ മാതൃകയാക്കി പെർസിസ്റ്റൻസ് എന്ന ആശയം മുന്നോട്ട് വച്ചിരുന്നു മേല്പറഞ്ഞ പെർസിസ്റ്റൻസ് എന്നത് ഘടനകളുടെ ബെൻഡിങ് റിജിഡിറ്റിയുമായി വളരെയധികം സാംഗത്യം പുലർത്തുന്നവയാണ് എന്നാൽ മേല്പറഞ്ഞ സ്പാഗെറ്റി നമ്മൾ പാകപ്പെടുത്തിയെടുത്താൽ സാമാന്യം വഴക്കമുള്ള നൂലുകൾ നമുക്ക് ലഭ്യമാകുന്നു അതിനോടൊപ്പം മറ്റൊന്നും കലർത്തിയില്ലെങ്കിലും അവ നിയതമായ രീതിയിൽ ഒത്തുകൂടി നിൽക്കുകയും ഗണ്യമായ തോതിൽ റെസിസ്റ്റൻസ് പ്രധാനം ചെയ്യുകയും ചെയ്യുന്നു ഈ കാണുന്ന ശൃംഖലയിൽ നിന്നും ഒരിഴ വേർപെടുത്തുവാൻ ശ്രമിച്ചാൽ നമുക്ക് മേല്പറഞ്ഞ നൂലിഴകളുടെ പ്രത്യക്ഷമായ പ്രതിരോധം അനുഭവപ്പെടും എന്നതാണ് വസ്തുത വിവിധയിനം ഫോഴ്സുകൾക്ക് വിധേയമാകുമ്പോൾ വസ്തുക്കളുടെ ഘടനാപരമായ സവിശേഷതകളിൽ എപ്രകാരം വ്യത്യാസം സംഭവിക്കുന്നു എന്ന് അന്വേഷിക്കുന്ന പഠനമേഖലയാണ് റിയോളജി ഖരാവസ്ഥയും ദ്രാവകാവസ്ഥയും തമ്മിൽ വേർതിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കുമല്ലോ മേല്പറഞ്ഞ രണ്ട് അവസ്ഥകളിലും നിയതമായ ചില വ്യത്യാസങ്ങളുണ്ട് എന്നാൽ കൊളാജെൻ പോലുള്ള ECM ശൃംഖലകളെ ഇവയിൽ ഏതിലാണ് ഉൾക്കൊള്ളിക്കുവാൻ സാധിക്കുക അവ പൂർണമായി ഖരാവസ്ഥയിലാണെന്നോ ദ്രവ്യാവസ്ഥയിലാണെന്നോ മറിച്ച് ഇവയ്ക്കിടയിലെ ഒരു സമ്മിശ്രമായ അവസ്ഥയിലാണെന്നോ നമുക്ക് തറപ്പിച്ച് പറയാൻ കഴിയുമോ ഖരാവസ്ഥയും ദ്രാവകാവസ്ഥയും തമ്മിൽ വേർതിരിച്ചറിയുവാൻ ഒരു വ്യക്തമായ ധാരണ ലഭ്യമാകേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഖരവസ്തുക്കളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ സ്പ്രിങിന്റെ കാര്യം തന്നെയെടുക്കാം മേല്പറഞ്ഞ സ്പ്രിങ് എന്നത് ഒരു ലീനിയർ ഇലാസ്റ്റിക് സോളിഡിന് സമാനമാണ് നിയതമായ ഫോഴ്സിന്റെ പ്രഭാവത്തിൽ ഈ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ട്രെച് ചെയ്യുകയോ ചെയ്താൽ അവയുടെ ഘടനയിൽ ഗണ്യമായ രൂപഭേദം സംഭിക്കുന്നുണ്ടെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും ഘടനയിലെ രൂപാന്തരമെന്നത് തത്സമയം ഫോഴ്സ് പ്രയോഗിക്കപ്പെടുമ്പോൾ മാത്രമേ പ്രകടമാകുകയുള്ളു എന്നതാണ് വസ്തുത മേല്പറഞ്ഞ ഫോഴ്സിന്റെ അഭാവത്തിൽ സ്പ്രിങ് തന്റെ മൂലഘടനയിലേക്ക് തിരികെപോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ദ്രവരൂപത്തിലുള്ള വസ്തുവിൽ നിന്നും വിഭിന്നമായി പ്രയോഗിക്കപ്പെടുന്ന ഫോഴ്സിന്റെ അഭാവത്തിൽ ഖരാവസ്ഥയിലുള്ള വസ്തുവകകൾ തങ്ങളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് സാവകാശം മടങ്ങുന്നതായി നമുക്ക് കാണാൻ സാധിക്കും മേല്പറഞ്ഞ ഫോഴ്സ് പ്രയോഗിക്കപ്പെടുന്ന കാലത്തോളം വസ്തുവിൽ ഘടനാപരമായ വ്യത്യാസങ്ങൾ പ്രകടമായിക്കൊണ്ടേയിരിക്കും എന്നാൽ ദ്രവരൂപത്തിലുള്ള ഒരു വസ്തുവിൽ നിയതമായ ബലം പ്രയോഗിക്കപ്പെടുമ്പോൾ അവ ഒഴുകുകയും അവയിൽ നിന്നും ഫോഴ്സിന്റെ പ്രഭാവം പിൻവലിക്കപ്പെടുന്നത് വരെ ഒഴുക്ക് തുടരുകയും ചെയ്യുന്നു ഖരരൂപത്തിലോ അല്ലെങ്കിൽ ദ്രവ്യാവസ്ഥയിലോ ഉള്ള ഒരു വസ്തുവിൽ സാധ്യമായ വിവിധതരം രൂപാന്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം നേരത്തെ സൂചിപ്പിച്ച സ്പ്രിങ്ങിന്റെ ഉദാഹരണം തന്നെ എടുക്കാം സ്പ്രിങ്ങിനെ നിശ്ചിത തോതിലുള്ള ടെൻഷന് വിധേയമാക്കി അതിലൂടെ അവയെ കംപ്രസ് ചെയ്യുവാനോ അല്ലെങ്കിൽ അതിന് വിപരീതമായി സ്ട്രെച് ചെയ്യുവാനോ നമുക്കാകും സ്പ്രിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ചുരുക്കുമ്പോഴും വലിച്ചുനീട്ടുമ്പോഴും അതിൽ പ്രകടമാകുന്ന പ്രതിരോധത്തിന്റെ അളവെന്നത് ഒന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഇതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ ലഭ്യമാകുന്നതിനായി ഞാൻ ഇവിടെ ടെൻഷനും കംപ്രഷനും വരച്ചു കാണിക്കാൻ പോകുകയാണ് നിങ്ങൾക്ക് മുൻപിൽ നിശ്ചിത നീളമുള്ള ഒരു സ്പ്രിങ്ങുണ്ടെന്നും അതിന്റെ ഈ കാണുന്ന ഭാഗം ഇവിടെ ഉറപ്പിച്ചിരിക്കുകയാണെന്നും കരുതുക ഇനി നമ്മൾ ഇതിനുമേൽ ഒരു നിയതമായ ഫോഴ്സ് ചെലുത്തുകയാണ് മേല്പറഞ്ഞ പ്രവർത്തനത്തിന്റെ ഫലമായി സ്പ്രിങിന് ഈ കാണുന്ന രീതിയിൽ രൂപാന്തരം സംഭവിക്കുന്നു ഫോഴ്സിന്റെ പ്രഭാവത്തിൽ സ്പ്രിങ് നീളുകയും അതിലൂടെ Δx എന്ന നീളം അധികമായി ലഭിക്കുകയും ചെയ്യുന്നു സ്പ്രിങിനെ നമ്മൾ കംപ്രസ് ചെയ്യുമ്പോഴും Δx ന് സമാനമായ രൂപഭേദം തന്നെയാണ് സംഭവിക്കുന്നത് ഇനി ഷിയർ എന്നാൽ എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിനായ് ഞാനൊരു ബ്ലോക്ക് അഥവാ കട്ടിയെടുക്കുകയാണ് നിശ്ചിതതോതിൽ ഞാനിതിൽ ഒരു ബലം പ്രയോഗിക്കുകയാണ് ഈ കാണുന്നത് x ആക്സിസ് ആണെന്നും ഇത് y ആക്സിസ് ആണെന്നും കരുതുക മേല്പറഞ്ഞ കട്ടിയുടെ മുകൾ ഭാഗത്തായി തിരശ്ചീന ദിശയെ ലക്ഷ്യമാക്കി ഞാൻ നിയതമായൊരു ഫോഴ്സ് ചെലുത്തുകയാണ് ഈ പ്രവർത്തനത്തിന്റെ ഫലമായി ലഭിക്കുന്ന കട്ടിയുടെ പുതിയ രൂപഘടനയെന്നത് ഏതാണ്ട് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയിരിക്കും ഇതിനെയാണ് നമ്മൾ ഷിയർ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ഈ കാണുന്ന കട്ടിയുടെ ഉയരം h എന്നും ഇതിൽ പ്രകടമായ സ്ഥാനചലനത്തിനെ Δx എന്നും കണക്കാക്കിയാൽ ഷിയറിന്റെ സമവാക്യമെന്നത് Δxh എന്ന് നമുക്ക് ലഭ്യമാകുന്നു വസ്തുവിന്റെ ഒരു തരത്തിലുള്ള ബെൻഡിങ് അഥവാ വഴക്കത്തിന് സമാനമാണിത് സാമാന്യം നീളമുള്ള ഒരു വസ്തുവിൽ മേല്പറഞ്ഞ തോതിൽ ഒരു ഫോഴ്സ് ചെലുത്തുകയാണെങ്കിൽ അതിൽ ഈ കാണുന്നത് പോലൊരു ഘടനാപരമായ രൂപാന്തരമാണ് പ്രകടമാകുക ഇത് ബെൻഡിങ് എന്ന പ്രിക്രിയയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉത്തമ ഉദാഹരണമാണ് കംപ്രസ്സിവ് ഫോഴ്സിന്റെ സാഹചര്യത്തിലും മേല്കാണുന്ന ബെൻഡിങ് എന്ന പ്രക്രിയ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് നിങ്ങളുടെ കൈവശം ഒരു ഭാഗം ഉറപ്പിച്ച ഒരു നീണ്ട പ്രിസ്മാറ്റിക് ബീം ഉണ്ടെന്ന് ധരിക്കുക അതിന്മേൽ നിയതമായ തോതിൽ നിങ്ങൾ ഒരു കംപ്രസ്സിവ് ഫോഴ്സ് ചെലുത്തുകയാണെന്ന് കരുതുക അങ്ങനെയെങ്കിൽ അവയിൽ ഈ കാണുന്നത് പോലെ അല്പം വളവുള്ളതോ അല്ലെങ്കിൽ ഏതാണ്ട് ഈ കാണുന്ന പോലെയോ ഒരു രൂപാന്തരം പ്രകടമാകുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ കാണുന്നതെല്ലാം വിവിധ തരത്തിലുള്ള ബെൻഡിങ് കോൺഫിഗറേഷനുകളാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് തിരികെ വരാം ഫോഴ്സുകളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ നമുക്ക് മുൻപിൽ ടെൻഷനുണ്ട് കംപ്രഷനുമുണ്ട് ഏറ്റവും ലളിതമായി നമുക്ക് ടെൻഷന്റെ കാര്യം തന്നെയെടുക്കാം L നീളവും A ക്രോസ്സ് സെക്ഷനുമുള്ള ഒരു ബീമിൽ നമ്മൾ F നിരക്കിൽ ഒരു ഫോഴ്സ് ചെലുത്തുകയാണെന്ന് കരുതുക മേല്പറഞ്ഞ ബീമിന്റെ നീളം മീറ്ററിലും ക്രോസ്സ് സെക്ഷൻ മീറ്റർ സ്ക്വയറിലും അതുപോലെ തന്നെ ഫോഴ്സ് ന്യൂട്ടണിലുമാണ് Newton N നമ്മൾ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ് നമ്മൾ ഇതിന് ഉത്തരം കാണുകയെന്ന് നോക്കാം മേല്പറഞ്ഞ ബീമിനെ നിയതമായ ഫോഴ്സ് ചെലുത്തി സ്ട്രെച് ചെയ്യുമ്പോൾ δ എന്ന തോതിൽ ഒരു നിശ്ചിത നീളം അധികമായി ഇതിന് കൈവരിക്കാനാകുന്നുണ്ട് ഇവിടെ അനുഭവപ്പെടുന്ന സ്ട്രെസ് σ എന്നത് FA ക്ക് തുല്യമാണ് ഇതിന്റെ യൂണിറ്റിനെ Nm2 അഥവാ പാസ്ക്കൽ എന്ന് നമുക്ക് അഭിസംബോധന ചെയ്യാവുന്നതാണ് പാസ്ക്കൽ എന്ന യൂണിറ്റിനെ ചുരുക്കി നമുക്ക് Pa എന്ന് സൂചിപ്പിക്കാം അതായത് വസ്തുവിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്നത് ടെൻഷനോ കംപ്രഷനോ ആകട്ടെ അവയിൽ രൂപപ്പെടുന്ന സ്ട്രെസിന്റെ യൂണിറ്റെന്നത് പാസ്ക്കലായിരിക്കും എന്നത് സുനിശ്ചിതമാണ് സ്ട്രെച് ചെയ്യുമ്പോൾ ഉടലെടുക്കുന്ന പെർസെന്റജ് എലോങേഷൻ അഥവാ ആക്സിയൽ എലോങേഷൻ ε എന്നത് δL ന് തുല്യമാണ് ഹൂക്സ് നിയമം Hooke's Law നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ നമ്മൾ ഒരു വസ്തുവിനെ സ്ട്രെച് ചെയ്യുമ്പോൾ ഹൂക്സ് നിയമം പ്രകാരം സ്ട്രെസ് σ എന്നത് വസ്തുവിൽ അനുഭവപ്പെടുന്ന സ്ട്രെയിൻ ε നോട് സമാനമായിരിക്കും ഇവയെ പ്രൊപോർഷണാലിറ്റി കോൺസ്റ്റൻറ് E ഉപയോഗിച്ച് രേഖപെടുത്താവുന്നതാണ് ഇവിടെ E എന്നത് യഥാർത്ഥത്തിൽ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് Young's Modulus of Elasticity മേല്പറഞ്ഞ സമവാക്യത്തിനെ നമുക്ക് ഇപ്രകാരം പുനഃക്രമീകരിക്കാം ഇവിടെ FA എന്നത് E തവണ δL ന് തുല്യമാണ് ഈ കാണുന്ന സമവാക്യം ഉപയോഗപ്പെടുത്തി വസ്തുവിൽ പ്രകടമാകുന്ന യങ്സ് മോഡുലസിന്റെ നിരക്ക് നമുക്ക് ഗണിക്കാവുന്നതാണ് L നീളവും A ക്രോസ്സ് സെക്ഷനുമുള്ള ഒരു ബീമിൽ നമ്മൾ F നിരക്കിൽ ഒരു ഫോഴ്സ് ചെലുത്തുകയാണെന്ന് കരുതുക അങ്ങനെയെങ്കിൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന സ്ട്രെച്ചിങിന്റെ നിരക്കെന്നത് FLA തവണ E ക്ക് തുല്യമാകുന്നു അഥവാ δ ALAE എന്ന് നമുക്ക് ലഭിക്കുന്നു ഈ കാണുന്ന യങ്സ് മോഡുലസ് E യുടെ കാര്യം തന്നെ എടുക്കാം ഫോഴ്സിൽ വ്യതിചലനമുണ്ടായാലും മേല്പറഞ്ഞ E കോൺസ്റ്റൻറ് ആയി തന്നെ നില്ക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ നമുക്ക് കണക്കിലെടുക്കാം ഉദാഹരണത്തിന് ഇവിടെ E യുടെ നിരക്ക് കോൺസ്റ്റന്റാണ് എന്ന് കരുതുക മേല്പറഞ്ഞ സാഹചര്യത്തിൽ സ്ട്രെസ് vs സ്ട്രെയിനിന്റെ കർവ് എങ്ങനെയിരിക്കുമെന്ന് നമുക്കൊന്ന് വിശദമായി തന്നെ നോക്കാം ഇവിടെ E യുടെ നിരക്ക് കോൺസ്റ്റന്റാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണല്ലോ അങ്ങനെയാകുമ്പോൾ സ്ട്രെസ് vs സ്ട്രെയിനിന്റെ പ്ലോട്ടെന്നത് E സ്ലോപ്പുള്ള ലീനിയറായ ഒരു നേർരേഖയായി നമുക്ക് ലഭിക്കുന്നു വസ്തുവിന്റെ സ്റ്റിഫ്നെസ്സ് അധികമാണെങ്കിൽ സ്ലോപ്പിന്റെ നിരക്കിലും വർദ്ധനവ് പ്രകടമാകുന്നു അങ്ങനെയെങ്കിൽ ഈ കാണുന്നത് E യും ഇത് E പ്രൈമുമാണെങ്കിൽ E പ്രൈം എന്നതിന്റെ തുക E യെക്കാൾ അധികമാകുകയും മേല്കാണുന്ന നേർരേഖയുടെ സ്ലോപ്പിൽ വർദ്ധനവ് പ്രതിഫലിക്കുകയും ചെയ്യുന്നു എന്നാൽ ചില ബയോമെറ്റീരിയൽസിന്റെയും ബയോപോളിമറുകളുടെയും ശൃംഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അവയിൽ മിക്കപ്പോഴും ലീനിയർ ഇലാസ്റ്റിസിറ്റിക്ക് പകരമായി നോൺ ലീനിയർ ഇലാസ്റ്റിസിറ്റിയാണ് കാണപ്പെടുന്നത് ഇവിടെ ഈ ചുവന്ന നിറത്തിൽ രേഖപെടുത്തിയിരിക്കുന്ന കർവിന്റെ സ്ലോപ്പ് കോൺസ്റ്റന്റല്ല എന്ന് മാത്രമല്ല നിരന്തരം മാറികൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് നോൺ ലീനിയർ ഇലാസ്റ്റിസിറ്റിയുടെ ഒരു ഉദാഹരണമാണ് വരൂ നമുക്ക് മേല്പറഞ്ഞ ഇലാസ്റ്റിസിറ്റിയിൽ എപ്രകാരമാണ് മാറ്റം സംഭവിക്കുന്നത് എന്ന് വിശദമായൊന്ന് നോക്കാം ഇവിടെ ഈ കാണുന്ന മെറ്റീരിയലിൽ നിയതമായ ഷിയർ പ്രയോഗിക്കപ്പെടുന്നുണ്ടെന്ന് കരുതുക നേരത്തെ സൂചിപ്പിച്ചത് പോലെ σ എന്നത് E തവണ ε ന് തുല്യമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ അനുഭവപ്പെടുന്ന സാധാരണഗതിയിലുള്ള സ്ട്രെസ്സിനെ നമുക്ക് ഷിയർ സ്ട്രെസ് എന്ന് അഭിസംബോധന ചെയ്യാം അങ്ങനെയാകുമ്പോൾ σ എന്നത് G ക്ക് തുല്യമാകുന്നു ഇവിടെ ε എന്നത് ആക്സിയൽ സ്ട്രെയിനാണ് മേൽകാണുന്ന സമവാക്യം നമുക്ക് ഏറെ പരിചിതമാണ് ഈ കാണുന്നത് നോർമൽ സ്ട്രെസാണ് ഇത് ആക്സിയൽ സ്ട്രെങ്ത്തും ഇത് ഷിയർ സ്ട്രെസും ഇത് ഷിയർ സ്ട്രെയ്നുമാണ് ഇൻ കംപ്രെസ്സിബിൾ മെറ്റീരിയലുകളിൽ കാണപ്പെടുന്ന E യും G യും തമ്മിൽ പ്രകടമായ എന്തെങ്കിലും ബന്ധം തീർച്ചയായും ഉണ്ടാകാനിടയുണ്ട് ഇവിടെ E എന്നത് G യുടെ മൂന്ന് മടങ്ങാണ് എന്നതാണ് മേല്പറഞ്ഞ ബന്ധം ഈ കാണുന്ന സമവാക്യത്തിലൂടെയാണ് G യും E യും തമ്മിലുള്ള ബന്ധം സൃഷ്ടിക്കപ്പെടുന്നത് ഇവിടെ G E21ν ആണ് ഇതിൽ കാണപ്പെടുന്ന ν എന്ന ഘടകം യഥാർത്ഥത്തിൽ പോയ്സോൺ റേഷ്യോയാണ് Poisson's Ratio എന്താണ് ഈ പോയ്സോൺ റേഷ്യോ എന്ന് നമുക്ക് നോക്കാം ഒരു ഉദാഹരണമെടുക്കുകയാണെങ്കിൽ ഈ കാണുന്ന L നീളവും A വിസ്തീർണവുമുള്ള ഒരിടത്ത് നിന്നും നിങ്ങൾ L നീളവും A വിസ്തീർണവുമുള്ള മറ്റൊരിടത്തേക്ക് നീങ്ങുകയാണെന്ന് കരുതുക അങ്ങനെയെങ്കിൽ പോയ്സോൺ റേഷ്യോയെന്നത് ലാറ്ററൽ സ്ട്രെയിനെ ലോഞ്ചിട്യൂഡിനൽ സ്ട്രെയിൻ കൊണ്ട് ഹരിച്ചാൽ ലഭ്യമാകുന്ന തുകയാണ് മേല്പറഞ്ഞ ആക്സിസിലൂടെ ഇവയെ പിടിച്ച് വലിക്കുകയാണെങ്കിൽ അവ ഈ കാണുന്ന പെർപെൻഡികുലർ ആക്സിസിന് സമാനമായ ദിശയിൽ ലംബമായി കംപ്രസ് ചെയ്യപ്പെടുന്നതായി നമുക്ക് കാണാനാകും ആയതിനാൽ ഇവിടെ പോയ്സോൺ റേഷ്യോയെന്നത് യൂണിറ്റ് ലാറ്ററൽ കംപ്രഷനെ യൂണിറ്റ് ആക്സിയൽ എലോങേഷൻ കൊണ്ട് ഹരിച്ചാൽ ലഭ്യമാകുന്ന തുകയാണ് ν വിന്റെ നിരക്ക് 0 5 ആണെങ്കിൽ മെറ്റീരിയലിന്റെ വ്യാപ്തി കോൺസ്റ്റൻറ് ആണെന്നും അവ ഇൻ കംപ്രെസ്സിബിളുമാണെന്നർത്ഥം ഇവിടെ ν വിന്റെ മൂല്യം അരയായി കണക്കാക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ E യുടെ നിരക്ക് G യുടെ മൂന്നിരട്ടിയാണെന്ന് നമുക്ക് വ്യക്തമാകുന്നു ഇത്രയും നേരം നമ്മൾ ഖരരൂപമുള്ള വസ്തുക്കളെ കുറിച്ചാണ് ചർച്ച നടത്തിയത് ഇനി നമുക്ക് ദ്രവ്യാവസ്ഥയിലുള്ള വസ്തുക്കളെ പറ്റി വിശദമായി പഠനം നടത്താം അതിനായ് നമുക്ക് ഒരു ഐഡിയൽ ഫ്ലൂയിഡ് അഥവാ ഉത്കൃഷ്ട ദ്രവ്യത്തിന്റെ കാര്യം തന്നെയെടുക്കാം നമുക്ക് മുൻപിൽ ഉറപ്പിച്ചു നിർത്തിയ ഒരു പ്രതലമുണ്ടെന്ന് കരുതുക അതിന് മുകളിലായി മേല്പറഞ്ഞ ദ്രാവകം അല്പം ഒഴിച്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക ഈ കാണുന്ന ദ്രവരൂപത്തിലുള്ള വസ്തുവിന് മുകളിലെ ഭാഗം ചെറുതായി ചലിക്കുന്നുണ്ടെന്നും അതിനെ നമ്മൾ u വേഗതയിൽ വലിക്കുകയാണെന്നും കരുതുക ഈ കാണുന്ന ഉയരമെന്നത് h ആണെങ്കിൽ ഏറ്റവും ഉയർന്ന തോതിലുള്ള വേഗമെന്നത് u0 ആകുന്നു ഇത്തരത്തിലുള്ള ഐഡിയൽ ഫ്ലൂയിഡുകൾക്ക് നിയതമായ ഒരു വെലോസിറ്റി പ്രൊഫൈൽ നിർബന്ധമായും ഉണ്ടായിരിക്കും ആയതിനാൽ മുകളിൽ കാണപ്പെടുന്ന ദ്രവരൂപത്തിലുള്ള കണങ്ങളെ u0 വേഗത്തിൽ വലിക്കുകയാണെങ്കിൽ അവയിൽ എല്ലാ പാളിയിലുമുള്ള കണങ്ങൾ ചലനത്തിൽ ഏർപ്പെടുകയും അതിലൂടെ പതിയെ ലീനിയറായി വർദ്ധനവ് പ്രകടമാക്കുന്ന ഒരു ഫ്ലോ പ്രൊഫൈൽ ലഭ്യമാകുകയും ചെയ്യുന്നു ആയതിനാൽ y ഉയരത്തിൽ ഉള്ള ഫ്ലോ പ്രൊഫൈൽ u വിനെ നമുക്ക് ലളിതമായി u0yH എന്ന് രേഖപെടുത്താവുന്നതാണ് അപ്പോൾ ഈ കാണുന്നതാണ് ഒരു ഫ്ലോ പ്രൊഫൈൽ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി വിസ്കോസിറ്റിയുടെ ലഘുവായ സമവാക്യം നമുക്ക് കണ്ടെത്താവുന്നതാണ് ന്യൂട്ടന്റെ വിസ്കോസിറ്റി നിയമം പ്രകാരം ഷിയർ സ്ട്രെസ് എന്നത് ഗ്രേഡിയന്റിന് ആധാരമായി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒന്നാണ് ഇവിടെ ഷിയർ സ്ട്രെസ് എന്നത് പ്രൊപോർഷണാലിറ്റി കോൺസ്റ്റന്റായ µ വിലൂടെ ഷിയർ റേറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ് മേല്പറഞ്ഞ µ വെന്നത് വിസ്കോസിറ്റിയാണ് ഇതിനെ നമുക്ക് µγ എന്നും എഴുതാവുന്നതാണ് മുൻപ് പരിചയപ്പെട്ട ഖരരൂപത്തിലുള്ള വസ്തുവിൽ ഉടലെടുക്കുന്ന ഷിയറിൽ നിന്നും വിഭിന്നമായി τ എന്നത് G തവണ γ എന്ന് നമുക്ക് ലഭ്യമാകുന്നു അപ്പോൾ ഈ ലഭിച്ചതാണ് ഷിയർ സ്ട്രെയിൻ ദ്രവരൂപത്തിലുള്ള വസ്തുവിനെ ഷിയർ സ്ട്രെസ് എന്നത് മേല്പറഞ്ഞ ഷിയർ സ്ട്രെയിനിനോടല്ല മറിച്ച് ഷിയർ സ്ട്രെയിൻ റേറ്റിനോടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇവിടെ ഷിയർ സ്ട്രെയിൻ റേറ്റെന്നത് γ നെ പ്രൊപോർഷണാലിറ്റി കോൺസ്റ്റന്റ് അഥവാ വിസ്കോസിറ്റി µ കൊണ്ട് ഹരിച്ചാൽ ലഭ്യമാകുന്ന തുകയാണ് മേല്പറഞ്ഞ µ വിന്റെ യൂണിറ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം τ യുടെ യൂണിറ്റ് എന്നത് സ്ട്രെസിന്റെ യൂണിറ്റായ പാസ്ക്കൽ തന്നെയാണ് ആയതിനാൽ τ µdudy എന്ന് നമുക്ക് ലഭ്യമാകുന്നു τ യുടെ യൂണിറ്റ് Pa അഥവാ nm2 ആണ് µ തവണ u എന്നത് nm2 നെ m കൊണ്ട് ഹരിക്കുന്നതിന് തുല്യമാണ് µ വിന്റെ യൂണിറ്റ് nm2s അഥവാ Pas എന്നാകുമ്പോൾ അത് വിസ്കോസിറ്റിയുടെ യൂണിറ്റായി മാറുന്നു CGS യൂണിറ്റ് പ്രകാരം µ വിനെ നമുക്ക് പോയ്സ് എന്ന് അഭിസംബോധന ചെയ്യാവുന്നതാണ് ജലത്തിന്റെ വിസ്കോസിറ്റി എന്നത് 1cP ആണ് ഇതിനെ നമുക്ക് P എന്ന് ലളിതമായി രേഖപെടുത്താം അങ്ങനെയാകുമ്പോൾ ജലത്തിന്റെ വിസ്കോസിറ്റി എന്നത് 1cP എന്ന് നമുക്ക് ലഭിക്കുന്നു ന്യൂട്ടന്റെ വിസ്കോസിറ്റി നിയമം മേൽ സൂചിപ്പിച്ചതൊക്കെയാണ് നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് ആവശ്യമായ സമവാക്യം നമ്മൾ രൂപപ്പെടുത്തി കഴിഞ്ഞു ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക് മുൻപിൽ രണ്ട് മെറ്റീരിയലുകൾ ഉണ്ട് ഒന്ന് ഒരു ഐഡിയൽ സോളിഡും മറ്റൊന്ന് ഐഡിയൽ ഫ്ലൂയിഡുമാണ് നേരത്തെ നമ്മൾ ചർച്ച നടത്തിയിരുന്ന ECM ശൃംഖലകൾ എവിടെയാണ് സ്ഥിതിചെയ്യുന്നത് അവയുടെ രൂപഘടന ഒരു ഉത്ക്കൃഷ്ട ഖരരൂപത്തിലോ അല്ലെങ്കിൽ ഉത്ക്കൃഷ്ട ദ്രവ്യാവസ്ഥയിലോ ഇവയിലേതിലാണ് നിലനില്ക്കുന്നത് മേല്പറഞ്ഞ സ്ഥിതിഗതികൾ എന്നത് ECM മിന്റെ സാന്ദ്രത അതിൽ അടങ്ങിയിരിക്കുന്ന വിവിധയിനം പ്രോട്ടീനുകൾ ക്രോസ്സ് ലിങ്കിംഗിന്റെ തോത് ECM ന്റെ മറ്റ് ഘടനാപരമായ സവിശേഷതകൾ എന്നിവയെ എല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് നിർണ്ണയിക്കപ്പെടുന്നത് മേല്പറഞ്ഞ സൂചനകളെല്ലാം നിങ്ങൾ ECM ശൃംഖലകൾ അല്ലെങ്കിൽ ഹൈഡ്രോജെല്ലുകൾ എപ്രകാരം നിർമ്മിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിർണ്ണയിക്കപ്പെടുന്നത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി വ്യത്യസ്തയിനം ഗുണഗണങ്ങളുടെ ഒരു ശ്രേണി തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അന്തർലീനമായി അവയിൽ ചില വശങ്ങൾ ഖരരൂപത്തിലും എന്നാൽ മറ്റ് ചില ഭാഗങ്ങൾ ദ്രവ്യാവസ്ഥയിലും കാണപെടുന്നതിനാൽ തന്നെ ഇവയെ നമുക്ക് ലളിതമായി വിസ്കോ ഇലാസ്റ്റിക് എന്ന് അഭിസംബധന ചെയ്യാവുന്നതാണ് ECM ശൃംഖലകൾ നിങ്ങൾ എപ്രകാരം രൂപപ്പെടുത്തുന്നു എന്നതിനെ ആധാരമാക്കി ഇവയുടെ ഘടനയിൽ ഖരരൂപത്തിലോ അല്ലെങ്കിൽ ദ്രവ്യാവസ്ഥയിലോ അതുമല്ലെങ്കിൽ മേല്പറഞ്ഞ രണ്ട് അവസ്ഥകളുടെയും സംയോജിതമായ സവിശേഷതകൾ ഉൾക്കൊണ്ടതോ ആയ ശൃംഖല ലഭ്യമാകുന്നതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കൊളാജെൻ ഹൈഡ്രോജെല്ലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് ഈ കാണുന്നത് ഈ കാണുന്ന സൂചകങ്ങൾ സമയത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഈ കാണുന്ന ഹൈഡ്രോജെല്ലിനെ വലിച്ചുനീട്ടുകയാണ് മേല്പറഞ്ഞ ഹൈഡ്രോജെല്ലിനെ വശങ്ങളിലേക്ക് അങ്ങോട്ടുമിങ്ങോട്ടും വലിച്ചു നീട്ടാൻ സാധിക്കുമെന്നതാണ് ഈ കാണുന്ന ഒന്ന് രണ്ട് എന്നീ സൈക്കിളുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ഇവിടെ നമ്മൾ ആരംഭത്തിൽ ഈ കാണുന്ന ഇടത്ത് നിയതമായ തോതിൽ ഒരു സ്ട്രെയിൻ ചെലുത്തുകയും പിന്നീട് അവയെ പൂർവസ്ഥിതിയിലേക്ക് മടങ്ങിപോകാൻ അനുവദിക്കുകയുമാണ് ചെയ്യുന്നത് മേല്പറഞ്ഞ പ്രവൃത്തി നമ്മൾ ഒന്നിലധികം തവണ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ കൈവശം ഉള്ളത് ഈ കാണുന്ന രണ്ട് സൈക്കിളുകളാണ് ജെല്ലിനെ വലിച്ചുനീട്ടുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ നിന്നും തീർത്തും വിഭിന്നമായ ഒരു പാതയാണ് ഇവ വിരാമത്തിലെത്തുമ്പോൾ പിന്തുടരുന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ട ആദ്യത്തെ കാര്യവും ഇത് തന്നെയാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യമെന്തെന്നാൽ ഒന്നും രണ്ടും സൈക്കിളുകൾ തമ്മിൽ ഗണ്യമായ വ്യത്യാസം പ്രകടമാണ് ഇതിനർത്ഥം കാര്യമായ എന്തോ ഒന്ന് സൈക്കിൾ ഒന്നിലെ ഫോഴ്സിൽ നിന്നും വിഭിന്നമായി സൈക്കിൾ രണ്ടിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ഞാൻ ഇവയെ ഏകദേശം രണ്ട് നേർരേഖകളാക്കി കണക്കാക്കുകയാണ് അങ്ങനെയെങ്കിൽ മേല്പറഞ്ഞ കർവുകൾ കാഴ്ചയിൽ ഏതാണ്ട് ഇതുപോലിരിക്കും ഞാൻ ഇതിന്റെ സ്ലോപ്പ് വരയ്ക്കാൻ ശ്രമിച്ചാലും അവ ഒരു സൈക്കിളിൽ നിന്നും മറ്റൊരു സൈക്കിളിലേക്ക് നീങ്ങുമ്പോൾ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും ജെല്ലിനെ വലിച്ചു നീട്ടുംതോറും അവയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ശൃംഖല അക്ഷരാർത്ഥത്തിൽ മൃദുലമാകുകയല്ല മറിച്ച് കൂടുതൽ ദൃഢമാകുകയാണ് ചെയ്യുന്നത് എന്ന സൂചനയാണ് നമുക്ക് ഇതിൽ നിന്നും ലഭ്യമാകുന്നത് പ്രസ്തുത ലെക്ച്ചർ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ് ചുരുക്കിപ്പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഖരരൂപത്തിലും ദ്രവ്യാവസ്ഥയിലും കാണപ്പെടുന്ന വസ്തുക്കളുടെ സ്വഭാവസവിശേഷതകൾ വർണ്ണിക്കുകയുണ്ടായി മേല്പറഞ്ഞ വിവരണങ്ങളെ ആധാരമാക്കി ECM ശൃംഖലകൾക്ക് ഘടനാപരമായി ഖരരൂപത്തിലോ അല്ലെങ്കിൽ ദ്രവ്യാവസ്ഥയിലോ അതുമല്ലെങ്കിൽ മേല്പറഞ്ഞ രണ്ട് അവസ്ഥകളുടെയും സംയോജിതമായ സവിശേഷതകൾ ഉൾക്കൊണ്ട് കൊണ്ടോ പെരുമാറുവാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് നമുക്ക് വിശദമായി തന്നെ പഠനം നടത്തം